അതിനാൽ ബുദ്ധിമാനായ ഡാറ്റ ഘടനയുടെ ഉപയോഗം ഡാറ്റ ഘടനയ്ക്ക് ക്രുസ്കലിന്റെ അൽഗോരിതം കൂടുതൽ കാര്യക്ഷമമാക്കാൻ കഴിയുമെന്ന് യൂണിയൻ കണ്ടെത്തുന്നു മറ്റ് രണ്ട് അൽഗോരിതങ്ങളും നമുക്ക് കാര്യക്ഷമമാക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ സിംഗിൾ സോഴ്സ് ഷോർട്സ്ട് പാത ആയ ഡിജ്ക്സ്ട്രയുടെ അൽഗോരിതം കൂടാതെ മിനിമം പാഴ്സ് സ്പാനിങ് ട്രീയിലേക്കുള്ള പ്രിമിന്റെ അൽഗോരിതം ഇവ രണ്ടും സാധാരണയായി ഒരു പ്രിയോറിറ്റി ക്യൂ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഡാറ്റ ഘടന ആവശ്യമാണ് അതിനാൽ പ്രിയോറിറ്റി ക്യൂകൾ മനസിലാക്കാൻ നമുക്ക് ഇനിപ്പറയുന്ന സാഹചര്യം നോക്കാം അതിനാൽ ഞങ്ങൾക്ക് ഒരു ജോബ് ഷെഡ്യൂളർ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായി പ്രവർത്തിക്കുമെന്ന് കരുതുക അതിനാൽ ഞങ്ങൾ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഒന്നിലധികം ജോലികൾ പ്രവർത്തിപ്പിക്കുമ്പോൾ അവ ഓരോന്നും കുറച്ച് സമയത്തേക്ക് പ്രവർത്തിക്കുന്നു തുടർന്ന് ഒഴിവാക്കപ്പെടും അതിനാൽ ജോബ് ഷെഡ്യൂളർ അവരുടെ മുൻഗണനകൾക്കൊപ്പം ശേഷിക്കുന്ന എല്ലാ ജോലികളുടെയും ഒരു ലിസ്റ്റ് പരിപാലിക്കുന്നു പ്രോസസർ സൌജന്യമായിരിക്കുമ്പോഴെല്ലാം പട്ടികയിൽ പരമാവധി മുൻഗണനയുള്ള ഒരു ജോബ് ഷെഡ്യൂളർ തിരഞ്ഞെടുക്കുകയും അത് ഷെഡ്യൂൾ ചെയ്യുകയും ചെയ്യുന്നു ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് തീർച്ചയായും ഇത് ചലനാത്മകമാണ് അതിനാൽ ചില ജോലികൾ നടക്കുമ്പോൾ മറ്റ് പുതിയ ജോലികൾ വന്നേക്കാം അതിനാൽ ഓരോ തവണയും പുതിയ ജോലികൾ വരുമ്പോൾ അവർ വ്യത്യസ്ത മുൻഗണനകളോടെ വരും കൂടാതെ ഉയർന്ന മുൻഗണനയുള്ള പുതിയ ജോലികൾ പഴയ ജോലിയെക്കാൾ കുറഞ്ഞ മുൻഗണനയോടെ മുന്നേറുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള ഷെഡ്യൂളറുടെ ജോലിയാണ് ഇത് അതിനാൽ ഒരു ഡാറ്റ ഘടനയുടെ വീക്ഷണകോണിൽ നിന്ന് ഷെഡ്യൂളർ അവരുടെ മുൻഗണനകൾക്കൊപ്പം ശേഷിക്കുന്ന ജോലികളുടെ പട്ടിക നിലനിർത്താൻ ഏറ്റവും നല്ല മാർഗം ഏതാണ് എന്നതാണ് ഞങ്ങളുടെ ചോദ്യം അതിനാൽ ഈ ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ലിസ്റ്റ് ചലനാത്മകമായി അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും Refer Time 0122 പുതിയ ജോലികൾ വരുന്നത് അതിനാൽ ഇതിനെയാണ് ഞങ്ങൾ പ്രിയോറിറ്റി ക്യൂ എന്ന് വിളിക്കുന്നത് അതിനാൽ പ്രിയോറിറ്റി ക്യൂവിൽ ഞങ്ങൾക്ക് രണ്ട് അടിസ്ഥാന പ്രവർത്തനങ്ങൾ ഉണ്ട് ആദ്യത്തേത് അടുത്ത ജോലി എക്സ്ട്രാക്റ്റുചെയ്യുക എന്നതാണ് ഈ സാഹചര്യത്തിൽ ഏറ്റവും മുൻഗണനയുള്ള ജോലി എടുക്കുക അത് ക്യൂവിൽ നിന്ന് നീക്കംചെയ്യുക ഇപ്പോൾ തീർച്ചയായും ഒരേ മുൻഗണനയിൽ നിങ്ങൾക്ക് ഒന്നിലധികം ജോലികൾ ഉള്ള സാഹചര്യം ഞങ്ങൾക്കുണ്ട് അതിനാൽ നിങ്ങൾക്ക് മുൻഗണനകൾ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല പക്ഷേ അവ ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ടൈപ്പ് റൈറ്റിംഗ് റൂൾ ഉണ്ടെന്ന് ഉഹിക്കാം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഏറ്റവും ഉയർന്ന മുൻഗണനയുള്ള ജോലി ഏതാണ് എന്ന് ഞങ്ങൾ ശ്രദ്ധിക്കുന്നില്ല അതിനാൽ പ്രധാന പ്രവർത്തനം പരമാവധി ഇല്ലാതാക്കുക ക്യൂവിൽ നിന്ന് പരമാവധി മുൻഗണനാ ഇനം ഇല്ലാതാക്കുക പിന്നെ ഒരു ഉൾപ്പെടുത്തൽ ഉണ്ട് അതിനാൽ ഒരു ജോലി വരും അത് ചേർക്കും അത് ഒരു മുൻഗണനയോടെ വരും അതിനാൽ ഞങ്ങൾ പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് അതിനാൽ തുടർന്നുള്ള ഡിലീറ്റ് മാക്സ് ഇത് ഒരു എണ്ണത്തിലേക്ക് കൊണ്ടുപോകും അതിനാൽ അത്തരമൊരു ഡാറ്റ സൂക്ഷിക്കാൻ ഒരാൾക്ക് ചിന്തിക്കാവുന്ന ആദ്യ പരിഹാരം ഒരു ലിസ്റ്റ് ചിലതരം ലീനിയർ ഘടനയും ശ്രേണിയും അല്ലെങ്കിൽ ഒരു ലിസ്റ്റും നിലനിർത്തുക എന്നതാണ് കാരണം ഇത് ഒരു ലിസ്റ്റ് ചലനാത്മകമായി വളരുന്നതിനാൽ നിങ്ങളുടെ വ്യക്തമായ തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ ഞങ്ങൾ ഒരു തരംതിരിക്കാത്ത ലിസ്റ്റ് സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു ജോലി ചേർക്കുന്നത് എളുപ്പമാണ് അത് പട്ടികയിൽ ചേർത്തിരിക്കുന്നു അതിനാൽ ഉൾപ്പെടുത്തൽ ഒരു സ്ഥിരമായ സമയ പ്രവർത്തനമാണ് O സമയമെടുക്കുന്നു എന്നാൽ നമുക്ക് പലതവണ കണ്ടതുപോലെ നമുക്ക് തരംതിരിക്കാത്ത പട്ടിക ഉണ്ടെങ്കിൽ കുറഞ്ഞത് അല്ലെങ്കിൽ പരമാവധി കണ്ടെത്തുന്നതിന് മുഴുവൻ പട്ടികയും സ്കാൻ ചെയ്യണം അതിനാൽ ഈ സാഹചര്യത്തിൽ ഒരു തരംതിരിക്കാത്ത ലിസ്റ്റിൽ നിന്ന് പരമാവധി ഒരു ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഈ പ്രവർത്തനം ലിസ്റ്റിന്റെ വലുപ്പത്തിനോ അല്ലെങ്കിൽ ഇപ്പോൾ ബാക്കിയുള്ള ജോലികളുടെ എണ്ണത്തിനോ ആനുപാതികമായി ലീനിയർ സമയം എടുക്കും അതിനാൽ പട്ടിക ഉപയോഗിച്ച് ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേയൊരു ഉപയോഗപ്രദമായ കാര്യം അല്ലാത്തപക്ഷം അത് അടുക്കുക അതിനാൽ ഞങ്ങൾ ക്രമീകരിക്കുകയാണെങ്കിൽ മുൻഗണനാ ക്രമം കുറയ്ക്കുന്ന ജോലിയിൽ നമുക്ക് ശ്രമിക്കാനും നിലനിർത്താനും കഴിയും ഞങ്ങൾ അത് മുൻഗണനാക്രമം കുറയ്ക്കുകയാണെങ്കിൽ പരമാവധി മുൻഗണനയുള്ള ജോലി എല്ലായ്പ്പോഴും പട്ടികയുടെ തുടക്കത്തിൽ ആയിരിക്കും അതിനാൽ സ്ഥിരമായ സമയത്ത് നമുക്ക് അത് തൽക്ഷണം കണ്ടെത്താൻ കഴിയും അതിനാൽ മാക്സ് ഇല്ലാതാക്കുക ഇപ്പോൾ ഒരു സ്ഥിരമായ സമയ പ്രവർത്തനമായി മാറുന്നു പിന്നെ ഇൻസേർട് എന്ത് സംഭവിക്കും ഞങ്ങൾ പട്ടികയിൽ ഒരു മൂല്യം ചേർക്കേണ്ടതുണ്ട് അടുക്കിയിരിക്കുന്ന പട്ടികയിലേക്ക് ഒരു മൂല്യം ഉൾപ്പെടുത്തുമ്പോൾ അത് ഉൾപ്പെടുത്താനുള്ള ശരിയായ ലിസ്റ്റ് കണ്ടെത്താൻ ഞങ്ങൾ പട്ടികയിൽ നടക്കേണ്ടതുണ്ട് അതിനാൽ അത് ഇപ്പോൾ എടുക്കും ഓർഡർ N സമയം അതിനാൽ അടുക്കിയിട്ടില്ലാത്ത പട്ടികയ്ക്കിടയിലോ അടുക്കിയിരിക്കുന്ന പട്ടികയിലോ നമുക്ക് ഒരു തരംതിരിക്കാത്ത പട്ടികയിൽ ഒരു ട്രേഡ് ഓഫ് ഡിലീറ്റ് ഡിലീറ്റ് മാക്സ് പരമാവധി ലീനിയർ സമയം എടുക്കും ഒരു സോർട്ട് ചെയ്ത ലിസ്റ്റിൽ ലീനിയർ സമയം എടുക്കും അതിനാൽ N ജോലികളുടെ ഒരു ശ്രേണിയിൽ ഞങ്ങൾ ഒരു തരംതിരിക്കാത്ത പട്ടികയോ അടുക്കിയിരിക്കുന്ന പട്ടികയോ ഉപയോഗിച്ചാലും N ജോലികൾ സിസ്റ്റത്തിൽ എത്തുമെന്ന് കരുതുക അപ്പോൾ ഞങ്ങൾ അവയെ N തവണ ചേർക്കുകയും പരമാവധി N തവണ ഇല്ലാതാക്കുകയും ചെയ്യും അതിനാൽ ഈ രണ്ടിനുമിടയിൽ ഏത് പരിഹാരമാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഞങ്ങൾ സ്ക്വയർ സമയം ചെലവഴിക്കുന്നതിനുള്ള ഓർഡർ അവസാനിപ്പിക്കും അതിനാൽ ഇത് ഒരു രേഖീയ ഘടനയാണെന്ന് ഞങ്ങളോട് നിർദ്ദേശിക്കുന്നു പ്രിയോറിറ്റി ക്യൂവിന്റെ പ്രാതിനിധ്യം കാര്യക്ഷമമായി പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ഡൈമൻഷണൽ ഘടനയ്ക്ക് കടുത്ത പരിമിതി ഉണ്ട് അതിനാൽ നമ്മൾ ഒരു ഡൈമൻഷണൽ ഘടനയിൽ നിന്ന് രണ്ട് ഡൈമൻഷണൽ ഘടനയിലേക്ക് പോകേണ്ടതുണ്ട് അതിനാൽ നമുക്ക് രണ്ട് ഡൈമൻഷണൽ ഘടന ഉപയോഗിച്ച് ആരംഭിക്കാം നമുക്ക് എങ്ങനെയാണ് ഗണ്യമായ മെച്ചപ്പെടുത്തലുകൾ നേടാനാവുകയെന്ന് കാണിക്കാൻ ഞാൻ ഒരു ഡൈമൻഷണൽ നിന്ന് രണ്ട് ഡൈമൻഷണൽ നിന്ന് നീങ്ങുന്നു അതിനാൽ ഇവിടെ നമുക്ക് ലഭിക്കാവുന്ന മൊത്തം ജോലികളിൽ ഒരു പരിധിവരെ മുൻകൂട്ടി അറിയാമെന്ന് ഞങ്ങൾ അനുമാനിക്കുന്നു അതിനാൽ ഈ കേസിൽ N 25 ആണെന്ന് ഞങ്ങൾ കരുതുന്നു അതിനാൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ദൈർഘ്യം 25 പരമാവധി ദൈർഘ്യം 25 എന്ന ഒരു ഡൈമൻഷണൽ ലിസ്റ്റ് നിലനിർത്തുന്നതിനുപകരം ഞങ്ങൾ ഈ ലിസ്റ്റ് 5 മുതൽ 5 വരെയുള്ള സ്ക്വയർ അറേയായി പുനസംഘടിപ്പിക്കുന്നു സ്ക്വയർ റൂട്ട് N സ്ക്വയർ റൂട്ട് n അതിനാൽ അത്തരമൊരു കാര്യത്തിന്റെ ഒരു ഉദാഹരണം ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം അതിനാൽ ഞങ്ങൾക്ക് നിലവിൽ 25 മൈനസ് 6 19 ജോലികൾ ഉണ്ട് അവിടെ വ്യത്യസ്ത മുൻഗണനകളുണ്ട് ചിലപ്പോൾ രണ്ട് ജോലികൾക്ക് ഒരേ മുൻഗണന ഉണ്ടായിരിക്കാം എന്നാൽ പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ട് ഡൈമൻഷണൽ ശ്രേണിയിലൂടെ ഞങ്ങൾ അത് ഒരു തരത്തിലും തുടർച്ചയായി നിലനിർത്തേണ്ടതില്ല എന്നതാണ് ഞങ്ങൾ ഉറപ്പുനൽകുന്നത് ഇടത്തുനിന്ന് വലത്തോട്ട് വരി നോക്കുമ്പോൾ ഓരോ വരിയും ആരോഹണ ക്രമമാണ് എന്നതാണ് അതിനാൽ ഞങ്ങൾക്ക് ആദ്യ വരി ഒരു ആരോഹണ ക്രമമാണ് രണ്ടാമത്തെ വരിയിൽ എന്നാൽ വരികൾക്ക് പൊതുവായി ഒന്നുമില്ല അതിനാൽ ചെറിയ നിരയിലെ രണ്ടാമത്തെ വരിയിലും തിരിച്ചും നിങ്ങൾക്ക് വലിയ മൂല്യങ്ങൾ ഉണ്ടായിരിക്കാം ഉദാഹരണത്തിന് 19 പന്ത്രണ്ടിനേക്കാൾ വലുതാണ് 17 എണ്ണം 8 നേക്കാൾ വലുതാണ് അതിനാൽ ഇവ അഞ്ച് തരം സ്വതന്ത്ര ജോലികളുടെ പട്ടികയാണ് അവ ഓരോ പട്ടികയിലെയും മൊത്തം ജോലികളുടെ ഒരു കൂട്ടം ക്രമീകരിച്ചിരിക്കുന്നു അതിനാൽ ഈ പട്ടികയിൽ ഒരു പുതിയ ജോലി ചേർക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് കരുതുക അതിനാൽ തന്ത്രം വളരെ ലളിതമാണ് ശൂന്യമായ സ്ഥലമുള്ള ആദ്യ നിരയിലെ ശരിയായ സ്ഥലത്ത് ഞങ്ങൾ അത് ചേർക്കാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ വരികളിലൊന്നിൽ ശൂന്യമായ ഇടമുണ്ടോ എന്ന് കണ്ടെത്താൻ ഏതെങ്കിലും ഘടകങ്ങൾ എങ്ങനെ ഉണ്ടെന്ന് കണ്ടെത്താൻ ഞങ്ങൾ ഈ കാര്യത്തിലൂടെ നടക്കേണ്ടതുണ്ട് അതിനാൽ ഈ അധിക വിവരങ്ങൾ ഇവിടെ സൂക്ഷിക്കുന്നതിലൂടെ നിങ്ങൾ ആ ജോലി സംരക്ഷിക്കും അത് ഓരോ വരികളുടെയും വലുപ്പമാണ് അതിനാൽ വരികൾ ചേർക്കുന്നതിനുള്ള വലുപ്പം ഞങ്ങളുടെ പക്കലുണ്ടെന്ന് നമുക്ക് അനുമാനിക്കാം ഇപ്പോൾ ഓരോ വരിയും പരമാവധി അഞ്ച് വലുപ്പമുള്ള ഈ പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾ നിരത്തുന്നു അതിനാൽ വലുപ്പം 5 ആണെങ്കിൽ ഈ ആദ്യ നിരയിലേക്ക് 11 ചേർക്കാൻ ശ്രമിച്ചാൽ 11 ന് അവിടെ ഒത്തുപോകാൻ കഴിയില്ല കാരണം അടിസ്ഥാനപരമായി സ്ഥലമില്ല അതിനാൽ ഞങ്ങൾ അടുത്ത വരിയിലേക്ക് നീങ്ങുന്നു വലിപ്പം 5 എന്ന് ഒരിക്കൽ കൂടി ഞങ്ങൾ കാണുന്നു അതിനാൽ മൂന്നാമത്തേതിലേക്ക് പോകുക ഇപ്പോൾ ഒരു ഇടമുണ്ടെന്ന് ഞങ്ങൾ കാണുന്നു കാരണം ഈ നിരയിൽ മൂന്ന് മൂലകങ്ങൾ മാത്രമേ ഉള്ളൂ അതിന് 5 എടുക്കാം അതിനാൽ ഇപ്പോൾ ഞങ്ങൾ ഈ ലിസ്റ്റ് പരിശോധിച്ച് അത് ചേർക്കുന്നതിനുള്ള ശരിയായ സ്ഥലം കണ്ടെത്തി ഇൻസെർഷൻ സോർട് അത് ചെയുക അതിനാൽ ഇതിന് എത്ര സമയമെടുക്കുമെന്നതാണ് മറ്റൊരു ചോദ്യം ശരി നമുക്ക് N വരികളുടെ സ്ക്വയർ റൂട്ട് ഉണ്ടെന്ന് നമുക്കറിയാം അതിനാൽ മുകളിൽ നിന്ന് താഴേക്ക് പോകുന്ന ഇൻസേർട് ചെയുക ശരിയായ വരി കണ്ടെത്താൻ N സ്റ്റെപ്പുകളുടെ ചതുരശ്ര റൂട്ട് ആവശ്യമാണ് തുടർന്ന് ഓരോ വരിയിലും N എൻട്രികളുടെ സ്ക്വയർ റൂട്ട് ഉണ്ട് അതിനാൽ ഞങ്ങൾ ഒരു സാധാരണ ഉൾപ്പെടുത്തൽ നടത്തുകയാണെങ്കിൽ വരിയുടെ നീളത്തിന് ആനുപാതികമായി സമയമെടുക്കും ഞങ്ങൾ ഇൻസേർട് ചെയുക അതിനാൽ ശരിയായ വരി കണ്ടെത്തുന്നതിന് നമുക്ക് N സ്കാനിന്റെ ഒരു സ്ക്വരെ റൂട്ട് ഉണ്ട് ആ വരയ്ക്കുള്ളിലെ ശരിയായ സ്ഥാനം കണ്ടെത്താൻ N സ്കാനിന്റെ സ്ക്വരെ റൂട്ട് അതിനാൽ മൊത്തത്തിൽ ഇത് n എന്ന സ്ക്വരെ റൂട്ട്ന്റെ O സമയ ക്രമമാണ് അതിനാൽ ഇല്ലാതാക്കുന്നതിനെക്കുറിച്ച് എന്താണ് അതിനാൽ ഈ ശ്രേണിയിലെ പരമാവധി ഘടകം ഇല്ലാതാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇപ്പോൾ ഓരോ വരിയും മറ്റ് നിരയിൽ നിന്ന് സ്വതന്ത്രമായതിനാൽ ഈ പരമാവധി ഘടകം എവിടെയാണെന്ന് ഞങ്ങൾക്ക് മുൻകൂട്ടി അറിയില്ല എന്നിരുന്നാലും ഓരോ വരിയിലും പരമാവധി മൂലകം അവസാനത്തിലാണെന്ന് നമുക്കറിയാം കാരണം ഓരോ വരിയും അടുക്കിയിരിക്കുന്നു അതിനാൽ നമുക്ക് അറിയാവുന്ന ആദ്യ കാര്യം സാധ്യമായ എല്ലാ പരമാവധി ഘടകങ്ങളും യഥാർത്ഥത്തിൽ അതിന്റെ വരിയുടെ അവസാനത്തിലാണ് എന്നതാണ് അതിനാൽ ഞങ്ങൾക്ക് ഈ അഞ്ച് വരികളുണ്ട് ഞങ്ങൾക്ക് പരമാവധി അഞ്ച് ഘടകങ്ങളുണ്ട് ഇപ്പോൾ മൊത്തത്തിലുള്ള പരമാവധി ഈ അഞ്ച് ഘടകങ്ങളിൽ ഒന്നായിരിക്കണം അത് ഏറ്റവും വലിയ ഒന്നായിരിക്കണം അതിനാൽ നമുക്ക് വലിപ്പത്തിലുള്ള വിവരങ്ങൾ ഉപയോഗിക്കാം അതിനാൽ ഇത് ആദ്യ നിരയിലെ അഞ്ചാമത്തെ മൂലകവും രണ്ടാം നിരയിലെ അഞ്ചാമത്തെ മൂലകവും മൂന്നാമത്തെയും നാലാമത്തെയും വരിയിലെ നാലാമത്തെ മൂലകത്തെയും അവസാനത്തെ നിരയെയും സൂചിപ്പിക്കുന്നു അതിനാൽ വലിപ്പത്തിലുള്ള വിവരങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഇവയെല്ലാം സ്കാൻ ചെയ്യാനും ഈ കേസിൽ ഏറ്റവും വലുത് 43 ആണെന്ന് തിരിച്ചറിയാനും കഴിയും 43 ഇല്ലാതാക്കേണ്ടത് ആവശ്യമാണ് 43 ഇല്ലാതാക്കിയ ശേഷം ഞങ്ങൾ അത് നീക്കംചെയ്യുന്നു പിന്നെ തീർച്ചയായും നമ്മൾ 4 ൽ നിന്ന് വലിപ്പം കുറയ്ക്കണം അതിനാൽ മുമ്പത്തെ ഉദാഹരണത്തിൽ നമ്മൾ വർദ്ധിച്ചപ്പോൾ വലുപ്പം ട്രാക്ക് ചെയ്യാം 11 ഞങ്ങൾ ഇത് 3 ആക്കുന്നു അതിനാൽ ഇത് വീണ്ടും ഒരു ഓർഡർ റൂട്ട് N പ്രവർത്തനമാണ് അതിനാൽ ഞങ്ങൾ ഇപ്പോൾ ഒരു ഡാറ്റാ ഘടന കൈവരിച്ചിരിക്കുന്നു അത് പ്രിയോറിറ്റി ക്യൂവിലെ ഘടകങ്ങളുടെ ട്രാക്ക് സൂക്ഷിക്കുന്നു അവിടെ ഇൻസേർട്ട് ഓർഡർ റൂട്ട് N സമയം എടുക്കുന്നു മാക്സ് ഇല്ലാതാക്കുക റൂട്ട് N സമയം എടുക്കുന്നു അതിനാൽ ഇപ്പോൾ N ജോലികളുടെ ഒരു ശ്രേണി പ്രോസസ്സ് ചെയ്യുന്നതിന് N റൂട്ട് N സമയം എടുക്കും മുമ്പ് ഓർഡർ N സ്ക്വയർ ആയിരുന്നു എന്ന് ഓർക്കുക അതിനാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ N എന്ന ചതുരത്തിൽ നിന്ന് N 3 കൊണ്ട് 2 എന്ന ക്രമത്തിൽ ക്രമീകരിക്കാൻ ഞങ്ങൾക്ക് കുറവുണ്ട് അതിനാൽ ഒരു രേഖീയ തിരയലിൽ ഒരു രണ്ട് ഡൈമൻഷണൽ ഘടന നിങ്ങൾക്ക് ഗണ്യമായ സമ്പാദ്യം നൽകുമെന്ന് വിശദീകരിക്കാനുള്ള ഒരു സാമ്പിൾ മാത്രമാണ് ഇത് അതിനാൽ തീർച്ചയായും ഞങ്ങൾ ഇതിൽ സന്തുഷ്ടരല്ല മറ്റുള്ളവർ നിങ്ങൾ ഇത് അവസാനിപ്പിക്കും അതിനാൽ യഥാർത്ഥത്തിൽ നമുക്ക് N മുതൽ 3 by 2 വരെ വളരെ മികച്ചത് ചെയ്യാൻ കഴിയും ഇതാണ് പിന്നീടുള്ള പ്രഭാഷണത്തിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ഒരു പ്രിവ്യൂ നൽകാൻ ഞങ്ങൾ ഇത് ചെയ്യാൻ പോകുന്നത് ഒരു ലളിതമായ ശ്രേണിയിലോ ഒരു ചതുര മാട്രിക്സിലോ അല്ല മറിച്ച് ഒരു ഹീപ്പ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു പ്രത്യേക തരം ബൈനറി ട്രീലാണ് അതിനാൽ ഇത് ഒരു ബൈനറി ട്രീയിരിക്കും അതിനാൽ ഇതിന് ഇതുപോലുള്ള ഘടന ഉണ്ടാകും അത് സന്തുലിതമായിരിക്കും അതിനാൽ അടിസ്ഥാനപരമായി എല്ലാ പാസിനും ഏകദേശം ഒരേ നീളമുണ്ടായിരിക്കും ഇതിന്റെ അർത്ഥം ട്രീന്റെ ഉയരം ട്രീന്റെ വലുപ്പത്തിൽ ലോഗരിത്തമിക് ആയിരിക്കും എന്നതാണ് ഇത് മാക്സ് ടേക്ക് log N പ്രവർത്തനങ്ങൾ ചേർക്കാനും ഇല്ലാതാക്കാനും ഇടയാക്കും ഇത് N log N ന്റെ N പ്രവർത്തനങ്ങൾക്ക് മൊത്തത്തിൽ ഡൌൺ നൽകും മറ്റൊരു കാര്യം ഞങ്ങൾ ഇത് യഥാർത്ഥത്തിൽ ഇതുപോലുള്ള ഒരു ചലനാത്മക ട്രീയി പരിപാലിക്കുന്നു എന്നതാണ് നമ്മൾ നിർദ്ദേശിച്ചതല്ലാത്ത ഒരു ലളിതമായ അനുമാനമോ ലളിതമായ പരിഹാരമോ ചെയ്യേണ്ടതില്ല അവിടെ ഞങ്ങൾ N അപ്പർ ബാൻഡ് ചെയ്യുന്നു കീ നമുക്ക് ആവശ്യമുള്ളത്ര വലുതായി വളരുന്ന ഒരു പരിഹാരം നമുക്ക് ഉണ്ടാകും അതിനാൽ അത് സന്തുലിതമായി നിലനിർത്താൻ ഞങ്ങൾ അത് ചിട്ടയായ രീതിയിൽ വളർത്തുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നിടത്തോളം കാലം അതിനാൽ ഞങ്ങൾ അടുത്തതായി നോക്കുന്നത് ഇതാണ് ഒരു കൂട്ടം തരം ബൈനറി ട്രീ പരിപാലിച്ചുകൊണ്ട് ഒരു പ്രിയോറിറ്റി ക്യൂ നടപ്പിലാക്കുന്ന ഒരു ഹീപ്പ് എന്ന് വിളിക്കപ്പെടുന്ന ഈ ഡാറ്റ ഘടന ഞങ്ങൾ നോക്കും